ഇനി നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം അതിനാൽ അടുത്ത ഉദാഹരണത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ അതായത് ഞങ്ങൾക്ക് ഇപ്പോഴും പരസ്പര പൂരകമായ സർക്യൂട്ടുകൾ ഉണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് ഒരു റീജനറേടിവ് കോൺഫിഗറേഷൻ വേണം എന്താണ് പുനരുൽപ്പാദന കോൺഫിഗറേഷൻ അതിന് മുമ്പ് എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ സിലിണ്ടറിനെ ഒരറ്റത്തേക്ക് നീക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ റോഡ് നീട്ടാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ ദ്രാവകത്തെ ക്യാപ്ൻറെ അറ്റത്തേക്ക് തള്ളിവിടുകയും ദ്രാവകം റോഡിൽ നിന്ന് പുറത്തുവരുകയും ചെയ്യുന്നു അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ക്യാപ്പിനെ പമ്പിലേക്ക് ബന്ധിപ്പിക്കുകയും നിങ്ങൾ ആ റോഡ് ടാങ്കിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇതാണ് റോഡിൽ നിന്ന് പുറത്തുവരുന്ന ചില ദ്രാവകങ്ങൾ ക്യാബിനിലേക്ക് വീണ്ടും വിതരണം ചെയ്യാൻ നിങ്ങൾ അവൾ ആഗ്രഹിക്കുന്നു അത് എങ്ങനെ സാധ്യമാകും അതിനാൽ അതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ആദ്യം ഘടകങ്ങൾ വീണ്ടും തിരിച്ചറിയുക അതായത് ഇത് എ പമ്പ് ഇതാണ് ബി റിലീഫ് വാൽവ് ഇതാണ് സി ഡയറക്ഷനഅൽ വാൽവ് ഇത് ഡി ഒരു സിലിണ്ടർ ഇപ്പോൾ കാണുക ഞങ്ങൾ സിലിണ്ടർ റോഡ് അൽപ്പം കട്ടിയുള്ളതായി വരച്ചിട്ടുണ്ട് റോഡിൻറെ വിസ്തീർണ്ണം സിലിണ്ടർ പിസ്റ്റൺ വിസ്തീർണതിന്യൂ തുച്ഛമല്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതാണ് പിസ്റ്റൺ ഏരിയ ക്യാപിറ്റൽ എ ഇതാണ് റോഡിൻറെ ഏരിയ ചെറിയ എ എന്ന് കരുതുക അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ രണ്ട് വശങ്ങളുടെയും വിസ്തീർണം വ്യത്യസ്തമാണ് ശരിയാണ് ഈ പ്രത്യേക ഡയറക്ഷൻൽ വാൽവിലേക്ക് നോക്കുക അത് ടു പൊസിഷൻ തരത്തിലുള്ളതാണ് ഇത് ആശ്രയിച്ചിരിക്കുന്നത് ആണെന്ന് നിങ്ങൾക്കറിയാം അതായത് രണ്ട് സോളിനോയിഡുകളും ഓഫ് ആകുമ്പോൾ എന്തു സംഭവിക്കുന്നു ഇപ്പോൾ രണ്ട് സോളിനോയിഡുകളും ഓഫാണ് അതിനാൽ തന്നെ ഇത് സോളിനോയിഡിന്റെ അവസാന പ്രവർത്തനത്തിന് അനുയോജ്യമായ സ്ഥാനത്ത് തുടരും അതിനാൽ അവസാന സോളിനോയിഡ് എ ഓണായിരുന്നുവെങ്കിൽ അല്ല ഓഫ് ആയിരുന്നാലും അത് ഇടത് സ്ഥാനത്ത് തുടരും എന്തെന്നാൽ അത് ഒരു മെക്കാനിക്കൽ ക്രമീകരണം മൂലമാണ് ശരി ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇത് നോക്കൂ ഇവിടെ പമ്പ് ഫ്ലോ വി ആണെന്ന് കരുതുക ശരിയാണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഈ ഭാഗത്തെ ഒഴുക്ക് എന്താണ് ഈ ഭാഗത്തെ ഫ്ലോ ആണ് വി ഒഴുക്ക് അനുപാതം ദൂരം അതായത് അത് ദൂരം നീങ്ങുന്നു എന്ന് സങ്കൽപ്പിക്കുക എന്നാൽ വോളിയം ഫീൽഡ് എന്നത് ഗുണനം ആണ് മാത്രമല്ല പുറന്തള്ളപ്പെടുന്ന വോളിയം ഗുണനം ആണ് അതായത് ഇത് V1 ഇത് V2 അത് പുറത്തേക്ക് വരുന്നത് ആണെങ്കിൽ v2v1 A 1 aA 1 1K K ഈ V2V1 V1V2 KK 1ശരി ഇനി എന്താണ് V V1 - V2 V2അതെ V1 V1 - V2 അപ്പോൾ V1 k k - 1 x V2 അതായത് K - 1 x V2 എന്തിന് സമമായിരിക്കും അത് 1 x V2 സമമായിരിക്കും K K1 അതുകൊണ്ട് 1 x V2 കൂടാതെ V2 K 1 നമുക്ക് ഇത് വ്യത്യസ്തമായ രീതിയിൽ എഴുതാം അപ്പോൾ നമുക്ക് രണ്ട് സമവാക്യങ്ങൾ കിട്ടും നമുക്ക് V2 x V എന്ന് കിട്ടും കൂടാതെ V1 K x V ഇതാണ് ആ പറഞ്ഞ രണ്ട് സമവാക്യങ്ങൾ ഞാനിത് രണ്ട് വർണ്ണങ്ങളിൽ അടയാളപ്പെടുത്താം ഇവയാണ് അവസാന സമവാക്യങ്ങൾ ഇതാണ് ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതുപോലെതന്നെ എന്നെ നിങ്ങൾക്ക് കാണാം ഒരു വിശേഷമായ സംഗതി എക്സ്റ്റൻഷൻ സ്ട്രോക്കിനെ സമയത്താണ് ആണ് ഈ സംഗതി ഉണ്ടാവുന്നത് അ അതായത് അത് നിങ്ങൾക്ക് ഫ്ലോയുടെ തോത് കാണാൻ കഴിയുന്നത് K x V എന്നാണ് സാധാരണയായി K1 ആണ് എന്നാൽ യഥാർത്ഥത്തിൽ ദ്രാവകം ഉണ്ടായത് പമ്പിൽ നിന്നാണ് എന്താണ് ചെറിയ V ശരി ഇപ്പോൾ റീട്രാക്ഷൻ സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുന്നത് അതിനാൽ എക്സ്റ്റൻഷൻ സ്ട്രോക്കിനെ ഇത് ഇതുപോലെ ആണ് ആണ് സംഭവിക്കാൻ പോകുന്നത് ഇതുപോലെ പ്രവേശിക്കുകയും പിന്നീട് വീണ്ടും ഭാഗം ഇതിലേക്ക് പോകുകയും ഭാഗം പോകുന്നു ഇതാണ് ഫ്ലോ പാറ്റേണുകൾ റീട്രാക്ഷൻ സ്ട്രോക്കിൽ എന്ത് സംഭവിക്കും റീട്രാക്ഷൻ സ്ട്രോക്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്ഥാനത്താണ് നേരിട്ട് ഇതാണ് പാത അതായത് ദ്രാവക കൂട്ടിച്ചേർക്കലോ മറ്റോ ഇല്ല അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇത് V ആണെങ്കിൽ ഇത് നേരിട്ട് ഇതിലേക്ക് പോകുന്നു ഇത് എന്താണ് സംഭവിക്കാൻ സ്വാഭാവികമായും പോകുന്നത് അതിനാൽ A v ഇത് X ദൂരത്തേക്കു അ നീങ്ങുന്നതായി സങ്കൽപ്പിക്കുക ഇത് V ആണെങ്കിൽ വിസ്തീർണ്ണം നേർപകുതി ആണെന്ന് എന്ന് സങ്കൽപ്പിച്ചാൽ ഇത് KxV ആണ് യൂണിറ്റ് സമയം കൊണ്ട് നീങ്ങിയ ദൂരം എന്തെന്നാൽ V A - a V വ്യാപ്തി ആണെങ്കിൽ ഇതാണ് നീങ്ങിയ ദൂരം ആയതിനാൽ എന്നാൽ ആ ദൂരം ഗുണനം A ആയിരിക്കും കൂടിയ വ്യാപ്തി അതിനാൽ A A - a V A a A - a A 1 - 1K K - 1K ആയിരിക്കും അതുകൊണ്ട് AA - a ആകാൻ പോകുന്നത് K K - 1 കും എന്നാണ് അതുകൊണ്ട് ഇത് K V ആണ് ദ്രാവകം പുറന്തള്ളുന്ന നിരക്കാണിത് ശരി ഇതാണ് ദ്രാവകം അതിനാൽ ഇത് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ എന്താണ് നേടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സമ്മർദ്ദം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും സംഭവിക്കുന്ന ഒരു രസകരമായ കാര്യം അതാണ് A 0 5 ന് തുല്യമാണെന്നും അല്ലെങ്കിൽ A a 2 ന് തുല്യമാണെന്നും കരുതുക അതിനാൽ എന്ത് സംഭവിക്കുന്നു എന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് അതേ പമ്പ് ഫ്ലോ റേറ്റ് V ഉപയോഗിച്ച് യൂണിറ്റ് സമയത്തിന് സഞ്ചരിച്ച ദൂരം ആയിരിക്കും ഇത് V ആണെങ്കിൽ ഇതായിരിക്കും അതിലേക്കുള്ള ഒഴുക്ക് വി ആകും മുമ്പത്തെ കേസിൽ എന്താണ് സംഭവിച്ചത് മുമ്പത്തെ കേസിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ മുമ്പത്തെ കേസിലേക്ക് പോയാൽ മുമ്പത്തെ കേസിലേക്ക് ഞങ്ങൾ എങ്ങനെ പോകും അതെ കുറച്ച് വേഗത്തിൽ അതെ മുമ്പത്തെ കേസിൽ നമുക്ക് ഉണ്ടായിരുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത് യഥാർത്ഥത്തിൽ കണ്ടെത്താനാകും നമ്മൾ ഇത് വീണ്ടും ചെയ്യണം ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ കണ്ടെത്താനാകും രസകരമായ ഒരു കാര്യം നിങ്ങൾക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും വാസ്തവത്തിൽ ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യത്തേത് നിങ്ങൾ ആ നമ്പർ 1കണ്ടുകാണുമല്ലോ രണ്ട് പോയിന്റുകൾ കണ്ടെത്തും ഒന്നാം നമ്പർ അത് 21 ഏരിയ അനുപാതം എന്ന് പറയട്ടെ അപ്പോൾ വിപുലീകരണവും പിൻവലിക്കൽ വേഗതയും തുല്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തും പക്ഷേ മറ്റ് ഏരിയ അനുപാതങ്ങൾക്ക് അവ സമാനമാകില്ല അത് ഓർമ്മിക്കേണ്ടതാണ് അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ സ്ട്രോക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇത് നേരിട്ട് പമ്പിലേക്കും ടാങ്കിലേക്കും കണക്റ്റുചെയ്തിരുന്നുവെങ്കിൽ അതേ പമ്പ് ഫ്ലോ റേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേഗത കുറഞ്ഞ ചലനമുണ്ടാകുമായിരുന്നു അതിനാൽ പുനരുജ്ജീവനത്തിന്റെ ഗുണം ഒരേ ഫ്ലോ റേറ്റ് റേറ്റിംഗ് പമ്പ്കൊണ്ട്നിങ്ങൾക്ക് വേഗതയേറിയ ചലനം സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് എന്നാൽ അതേ സമയം നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കു ഉയർന്ന പമ്പ് മർദ്ദം ആവശ്യമാണ് എന്ന് ശരിയാണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നത് അടിസ്ഥാനപരമായി അതിനർത്ഥം നമുക്ക് ഉയർന്ന പമ്പ് മർദ്ദം ആവശ്യമായി വരുന്നു അതേ ശക്തി ആവശ്യം ഉള്ള ഒരു ലോഡ് ഓടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ റീജനറേറ്റീവ് സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഉയർന്ന മർദ്ദം ആവശ്യമാണ് അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ മർദവും ഉം ഫ്ലോയും തുല്യത പുലർത്താൻ വേണ്ടിയുള്ള കൈമാറ്റം നടത്തുകയാണ് അതായത് ഒരു നിശ്ചിത വേഗത കൈവരിക്കാൻ വേഗത കുറഞ്ഞ ഫ്ലോ റേറ്റ് പമ്പ് ഉപയോഗിക്കാം അതേസമയം നിങ്ങൾക്ക് ഒരു നിശ്ചിത ശക്തി കൈവരിക്കണമെങ്കിൽ ഞങ്ങൾ ഉയർന്ന സമ്മർദ്ദം നൽകണം അതിനാൽ ഇത് പുനരുൽപ്പാദന ആകർഷണ സർക്യൂട്ടുകളുടെ അടിസ്ഥാന സവിശേഷതയാണ് അതിനാൽ അടുത്തതിലേക്ക് പോകുമ്പോൾ ഇത് പരമ്പരാഗത മോഡിലേക്ക് മാറുന്ന ഒരു പുനരുൽപ്പാദന പരസ്പര സർക്യൂട്ട് ആണ് അതിനാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അടിസ്ഥാനപരമായി ഒരേ തരം ആണ് ഇവിടെ സംഭവിക്കുന്ന ഒരേയൊരു കാര്യം വീണ്ടും നിങ്ങൾക്ക് പമ്പ് ഉണ്ട് നിങ്ങൾക്ക് റിലീഫ് വാൽവ് ഉണ്ട് നിങ്ങൾക്ക് സോളിനോയിഡുകളും ഹൈഡ്രോളിക് പൈലറ്റും ഉള്ള 3 പൊസിഷൻ ഡയറക്ഷൻഅൽ വാൽവുകളും ഉണ്ട് അതിനാൽ ആദ്യ സന്ദർഭത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ സ്ഥാനത്ത് ഒഴുക്ക് ഇതുപോലെയാണ് ക്യാപ്പ് ലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു ഈ വഴി പോകുന്നു ഇത് യഥാർത്ഥത്തിൽ തെറ്റാണ് നിങ്ങൾ ഇത് ഇതുപോലെ വരയ്ക്കണം അതിനാൽ തടസ്സമില്ലാതെ വരുന്നു അതിനാൽ റീജനറേഷൻ ഉണ്ട് ശരിയാണ് അതിനാൽ തുടക്കത്തിൽ റീജനറേഷൻ ഉണ്ട് അതിനാൽ തന്നിരിക്കുന്ന പമ്പ് ഫ്ലോ റേറ്റ് വേഗത കൂടുതലായിരിക്കും ഇപ്പോൾ അവസാനം ഉയർന്ന ശക്തിയുണ്ടെങ്കിൽ ആ ഫ്ലോ റേറ്റിൽ പ്രൈം മൂവർ ന്യൂ പിന്തുണയ്ക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ സമ്മർദ്ദം വർദ്ധിക്കും ഇത് പ്രതിരോധത്തെ അഭിമുഖീകരിക്കുമ്പോഴെല്ലാം ഇവിടെ സമ്മർദ്ദം വർദ്ധിക്കും എപ്പോൾ ഇവിടെ സമ്മർദ്ദം വർദ്ധിക്കുന്നു ഇത് എതിർദിശയിൽ ആയതിനാൽ ബന്ധപ്പെടുന്നു സമ്മർദ്ദം ഉയർന്നതിനു ശേഷം ഇത് ഇതുപോലെ ബന്ധിപ്പിക്കുകയും ഇതിലൂടെ ഒഴുകുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ മുഴുവൻ സമ്മർദ്ദം ഇവിടെ ഉണ്ടാവുകയും അതിനാൽ പുനരുജ്ജീവനമില്ല അതിനാൽ വേഗത കുറയും അതിനാൽ സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ കഴിയും ശരി ഇപ്പോൾ അതിനാൽ ഈ അവസാനഭാഗത്ത് ഉയർന്ന ശക്തിയുടെ ആവശ്യകത ഉണ്ടെങ്കിൽ അത് ഈ വാൽവ് വഴി ഒരു പുനരുൽപ്പാദനസർക്യൂട്ടിൽ നിന്ന് ഒരു പരമ്പരാഗത റെസിപ്രോക്കറ്റിംഗ് സർക്യൂട്ട് ലേക്ക് മാറും മറ്റ് സ്ഥാനത്ത് എന്ത് സംഭവിക്കും മറ്റ് സ്ഥാനത്ത് ഇത് വളരെ ലളിതമാണ് അത് ഇവിടെ ഉണ്ടാകും അതിനാൽ എന്താണ് സംഭവിക്കുകയെന്നത് നോക്കാം ഇതാണ് പ്രവാഹം അതിനാൽ ഇത് നേരിട്ട് ഈ ചെക്ക് വാൽവിലൂടെ ഒഴുകും അത് നേരിട്ട് തിരിച്ചുവരും അത് യഥാർത്ഥത്തിൽ ഇവിടെ തിരിച്ചെത്തും അത് ടാങ്കിലേക്ക് ബന്ധിപ്പിക്കും അതിനാൽ ഇത് വളരെ പരമ്പരാഗതമായ മോഡ് ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഒരു സമ്മർദ്ദ ആവശ്യകതയുമില്ല അതിനാൽ അത് വീണ്ടും വരുംഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും എന്നാൽ അതിനുള്ള ഒരേയൊരു ഗുണം നിങ്ങൾക്ക് ഉയർന്ന ബലം കിട്ടും എന്നുള്ളതാണ് ഫോഴ്സ് ആവശ്യകത പമ്പിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം നമ്മൾക്ക് ഒരു പുനരുൽപ്പാദന സർക്യൂട്ടിനായി പോകുന്നു അതിനാൽ പമ്പ് ഫ്ലോ റേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉയർന്ന വേഗത കൈവരിക്കാൻ സാധിക്കുന്നു എന്നാൽ ഫോഴ്സ് ആവശ്യകത ഉയരുമ്പോഴെല്ലാം നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നു അത് സ്വപ്രേരിതമായി ഒരു പരമ്പരാഗത സർക്യൂട്ടിലേക്ക് മാറുന്നു സമ്മർദ്ദം ഇപ്പോൾ പൂർണ്ണമായും പ്രയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാനും ഫ്ലോ റേറ്റ് മുഴുവനായും താഴുകയും ചെയ്യുന്നു ഫ്ലോ റേറ്റിനൊപ്പം നമ്മൾക്ക് കുറഞ്ഞ വേഗതയാണ് ഉള്ളത് അതിനാൽ ഈ സർക്യൂട്ടിന്റെ പ്രയോജനം അതാണ് അടുത്തതായി ഞങ്ങൾക്ക് ഒരു സീക്വൻസിംഗ് സർക്യൂട്ട് ഉണ്ട് അതിനാൽ സീക്വൻസിംഗ് സർക്യൂട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ നമുക്ക് ഒന്നിലധികം സിലിണ്ടറുകളുണ്ട് ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഒരു സിലിണ്ടർ മാത്രമേ കൈകാര്യം ചെയ്യേണ്ടതായി വന്നിട്ടുള്ളൂ പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം സിലിണ്ടറുകൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു മരം പ്രവർത്തിക്കുന്ന യന്ത്രമുണ്ടെന്ന് കരുതുക നിങ്ങൾക്ക് ഒരു പ്ലാനിങ്ങ് യന്ത്രമുണ്ട് അതിനാൽ നിങ്ങൾ മെഷീനിൽ പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് അതായത് കട്ടർ നീക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് നിങ്ങൾ തടി പിടിക്കണം അതിനാൽ ക്രമം ആദ്യം ഹോൾഡിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിച്ച് പ്ലാനർ നീക്കാൻ തുടങ്ങുക അതിനാൽ പ്ലാനർ നീട്ടുന്നു പ്ലാനർ പിൻവലിക്കൽ തുടർന്ന് ക്ലാമ്പ് സിലിണ്ടർ നീക്കംചെയ്യുന്നു അതിനാൽ നിങ്ങൾ അത് പ്രവർത്തിക്കുമ്പോഴെല്ലാം ആദ്യം ക്ലാമ്പ്പ്രവർത്തിപ്പിക്കണം തുടർന്ന് ആസൂത്രണ സിലിണ്ടറിന്റെ വിപുലീകരണം തുടർന്ന് ആസൂത്രണ സിലിണ്ടറിന്റെ പിൻവലിക്കൽ തുടർന്ന് അൺക്ലാമ്പ് ചെയ്യുക അതിനാൽ ഇത് പ്രവർത്തിക്കേണ്ട രണ്ട് സിലിണ്ടറുകളുടെ ഒരു പ്രത്യേക ശ്രേണിയാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് എങ്ങനെ നേടാമെന്ന് നോക്കാം ഇവിടെ സർക്യൂട്ട് ഉണ്ട് അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സർക്യൂട്ട് നോക്കൂ അതിനാൽ ഇവിടെ നമുക്ക് രണ്ട് സിലിണ്ടറുകളുണ്ട് ഒന്ന് ജെ മറ്റൊന്ന് എച്ച് ശരി ഇനി നിങ്ങൾക്ക് ഒരു സാധാരണ പമ്പുണ്ട് ഇതാണ് പ്രധാന വാൽവ് ശരി ഇത് പ്രവർത്തിക്കുന്നു ഇവിടെ റിലീഫ് വാൽവ് ഡി ഉണ്ട് ഈ മൂന്ന് വാൽവുകളാണ് യഥാർത്ഥത്തിൽ സീക്വൻസിംഗിന് കാരണമാകുന്നത് ശരിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് തുടക്കത്തിൽ സിലിണ്ടർ എച്ച് നീട്ടുന്നു ശരി അതിനാൽ ഇത് ഈ സ്ഥാനത്താണ് അപ്പോൾ സ്ഥാനം നോക്കുക എന്താണ് ഫ്ലോ സിലിണ്ടർ എച്ച് എക്സ്റ്റെൻഡിംഗ് എന്നാൽ ഇത് ഈ ചെക്ക് വാൽവിലൂടെ തുറന്ന ദിശയിൽ ഒഴുകുന്നു ക്യാപ് എന്റിലേക്ക് ഒഴുകുന്നു ഇതിലൂടെ പുറത്തേക്ക് പോകുന്നു അതിലൂടെ ഒഴുകുന്നു മടങ്ങുന്നു ഇതാണ് സമയം അതിനാൽ ഇതാണ് സ്ഥാനം അതിനാൽ സിലിണ്ടർ എച്ച് മുകളിലേക്ക് നീങ്ങുന്നു ഇത് സൈക്കിളിന്റെ ആദ്യ ഘട്ടമാണ് കുറച്ച് സമയത്തിന് ശേഷം എന്താണ് സംഭവിക്കുകയെന്നത് സിലിണ്ടർ എച്ച് നിർത്തും ഇത് മെക്കാനിക്കൽ സ്റ്റോപ്പിലൂടെ കടന്നുപോകേണ്ടതുണ്ട് ഇപ്പോൾ എന്ത് സംഭവിക്കും അതിനാൽ ഇവിടെ ഒരു മെക്കാനിക്കൽ സ്റ്റോപ്പിലേക്ക് വരുന്ന നിമിഷം ഈ സമ്മർദ്ദംഅടിക്കാൻ തുടങ്ങി കാരണം ഇതിലൂടെ കൂടുതൽ ഒഴുക്ക് ഉണ്ടാകാൻ കഴിയില്ല ഫ്ലോ നിർത്തി അതിനാൽ ഉടൻ തന്നെ ഈ പോയിന്റ് ഈ വാൽവ് പ്രവർത്തിപ്പിക്കുന്ന മർദ്ദത്തിലേക്ക് ഉയരുന്നു ശരിയാണ് ഇതിലൂടെ കടന്നുപോകാൻ കഴിയില്ല അതിനാൽ ഇത് ഇതിലൂടെ പോയി വാൽവ് ജെ തള്ളാൻ തുടങ്ങുന്നു അതിനാൽ ഫ്ലോ ഇതുപോലെ പോകുന്നു ഇതുപോലെ ഇതുപോലെ അതിനാൽ സിലിണ്ടർ ജെ നീട്ടുന്നു ശരി ഈ സമ്മർദ്ദം ഇതിൽ ഒരു സമ്മർദ്ദമുണ്ടെന്ന് ഓർമ്മിക്കുക അതിനാൽ ഈ മർദ്ദം നിലനിൽക്കുകയാണ് സിലിണ്ടർ എച്ച് അമർത്തിയിരിക്കുന്നു അതിനാൽ ഒരു ആവശ്യമുണ്ട് നിങ്ങൾ അത് ക്ലാമ്പിംഗിനായി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ക്ലാമ്പിംഗ് മർദ്ദമുണ്ട് അടുത്ത സിലിണ്ടർ ജെ പിൻവലിക്കൽ ആണ് അടുത്തതായി സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സോളിനോയിഡ് നീക്കി അതിനാൽ ഇത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പോയിന്റുമായി ബന്ധിപ്പിക്കണം ഈ പമ്പ് ഈ പോയിന്റുമായി ബന്ധിപ്പിക്കണം അതിനാൽ ഇപ്പോൾ പമ്പ് ഫ്ലോ ഇതുപോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിലൂടെ പോകുന്നു ഇതിലൂടെ പോകുന്നു സിലിണ്ടർ ജെ പിൻവാങ്ങുന്നു ഇതിലൂടെ ഒഴുകുന്നു ചെക്ക് വാൽവിലൂടെ സ്വതന്ത്രമായി ഒഴുകുന്നു ഇതിലൂടെ കടന്നുപോകുന്നു ഇതിലൂടെ പമ്പ് ടാങ്കിലേക്ക് പോകുന്നു സിലിണ്ടർ ജെ പിൻവലിക്കുന്നു ശരി അടുത്തത് അവസാന പോയിന്റ് ഇപ്പോൾ സിലിണ്ടർ ജെ പൂർണ്ണമായും പിൻവലിച്ചു അതിനാൽ ഇപ്പോൾ ഈ സമ്മർദ്ദത്തിന് കഴിയില്ല അതിനാൽ ഇപ്പോൾ ഇവിടെ സമ്മർദ്ദം വർദ്ധിക്കുന്നു ഇവിടെ സമ്മർദ്ദം വർദ്ധിക്കുന്നു അതിനാൽ ഇവിടെയും സമ്മർദ്ദം വർദ്ധിക്കുന്നു ഇത് ഇപ്പോൾ സിലിണ്ടറിനെ താഴേക്ക് തള്ളിവിടുന്നു എന്നാൽ ഇത്തവണ അതിന് അതിലൂടെ കടന്നുപോകേണ്ട ഒരു നോഡും ഇല്ല അതിനാൽ എച്ച് സിലിണ്ടർ താഴേക്ക് വരുമ്പോൾ എല്ലായ്പ്പോഴും ഒരു ബാക്ക് പ്രഷർ ഉണ്ട് ഇത് ടാങ്കുമായി ബന്ധിപ്പിച്ചിട്ടില്ല കാരണം ഇത് ഇതിലൂടെ കടന്നുപോകുന്നില്ല ഇത് റിലീഫ് വാൽവിലേക്ക് പോകുന്നു അതിനാൽ ഇവിടെ താഴേക്ക് പോകുന്ന സിലിണ്ടർ എച്ച് എന്നാൽ നെറ്റ് ഫോഴ്സ് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കപ്പെടുന്നു അതിനാൽ ഇത് സാവധാനത്തിൽ താഴേക്ക് വരുന്നു ചിലപ്പോൾ ഭാരം കുറഞ്ഞത് ലംബമായി വരുമ്പോൾ നിങ്ങൾക്കറിയാം മുകളിലേക്ക് പോകുന്നത് വേഗത്തിലാകാമെങ്കിലും താഴേക്ക് പോകുന്നത് കുറഞ്ഞ ശക്തിയിൽ ആയിരിക്കണം അതിനാൽ ഇതാണ് നിങ്ങൾ നേടിയത് അതിനാൽ നിങ്ങൾക്ക് ഒരു സീക്വൻസിംഗ് നേടാൻ സാധിച്ചു ഇവ ചില സർക്യൂട്ടുകളും ഈ പാഠത്തിൽ നമ്മൾ കണ്ടവയുമാണ് അൺലോഡിംഗ് സർക്യൂട്ടുകൾ സിസ്റ്റം പ്രഷർ സെലക്ഷൻ സർക്യൂട്ടുകൾ വിവിധതരം റെസിപ്രോക്കേറ്റിംഗ് സർക്യൂട്ടുകൾ ദ്രുത മോഡുകളുള്ള റെസിപ്രോക്കേറ്റിംഗ് സർക്യൂട്ടുകൾ പുനരുജ്ജീവനത്തോടുകൂടിയ റെസിപ്രോക്കേറ്റിംഗ് സർക്യൂട്ടുകൾ പുനരുജ്ജീവനനോടൊപ്പം കൺവെൻഷണൽ റെസിപ്രോക്കേറ്റിംഗ് സർക്യൂട്ട്കളും നിങ്ങൾ കണ്ടു ഒടുവിൽ ഒന്നിലധികം സിലിണ്ടറുകളുള്ള സീക്വൻസിംഗ് സർക്യൂട്ട്കളും ശരി അതിനാൽ അത് നിങ്ങളെ പാഠത്തിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരുന്നു ആലോചിക്കാൻഉള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന നിരവധി ചോദ്യങ്ങൾ ഉദാഹരണത്തിന് ആദ്യത്തെ അൺലോഡിംഗ് സർക്യൂട്ടിൽ ചെക്ക് വാൽവ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഉഹിക്കാമോ പ്രശ്നം ഉണ്ടാകും പമ്പ് എ എന്നതിനുപകരം പമ്പ് ബി അൺലോഡുചെയ്യണമെങ്കിൽ എങ്ങനെ നിങ്ങൾ സിസ്റ്റം പരിഷ്ക്കരിക്കും ആദ്യ സിസ്റ്റത്തിൽ സർക്യൂട്ട് സമെട്രിക്ലിആണെങ്കിൽ വളരെ ലളിതമാണ് അതിനാൽ നിങ്ങൾ പമ്പ് എയ്ക്കായി എന്തുചെയ്താലും അത് നിങ്ങൾ പമ്പ് ബി ക്ക് വേണ്ടിയും ചെയ്യണം സി മുതൽ ഡി വരെയും ഡി മുതൽ ഇ വരെയും ബന്ധിപ്പിക്കുന്ന ലൈനുകൾ ഡാഷ് ചെയ്ത വരിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് രണ്ടാമത്തേതാണ് അതാണ് സിസ്റ്റം മർദ്ദം തിരഞ്ഞെടുക്കൽ കാരണം അവ പൈലറ്റ് ലൈനുകളാണ് ക്ഷമിക്കണം ഞാൻ ഇതിനകം ഒരു ഉത്തരം നൽകി നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾക്ക് കഴിയുമോ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം ചില പരിധി സ്വിച്ച് പ്രവർത്തിക്കുന്നുവെന്നു അവ ചില സോളിനോയ്ഡ്കളെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഞാൻ പറഞ്ഞതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനാൽ അത് എങ്ങനെ സംഭവിക്കും അതിനാൽ നിങ്ങൾക്ക് അതിനായി ഒരു സ്കീം ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും ഇലക്ട്രിക്കൽ സ്കീം ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ലളിതമായ റിലേ ടൈപ്പ് സ്കീം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പിഎൽസി അധിഷ്ഠിത സ്കീം ഉണ്ടായിരിക്കാം അതിനാൽ വിവിധയിനം ക്രമീകരണങ്ങൾ ആവശ്യമാണ് അതിനാൽ ഉദാഹരണത്തിന് ഞാൻ ഒരെണ്ണം നൽകി മുകളിലുള്ള സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്കീമിനെക്കുറിച്ച് നിങ്ങൾക്ക് സംക്ഷിപ്തമായി വിവരിക്കാമോ അതായത് ഇന്റർമീഡിയറ്റ് പ്രഷർ മോഡ് മർദ്ദം ക്രമീകരണം കവിഞ്ഞാൽ സിസ്റ്റം സ്വപ്രേരിതമായി ലോ പ്രഷർ മോഡിലേക്ക് മാറും മുമ്പ് ഇത് സ്വമേധയാ ചെയ്യപ്പെട്ടിരുന്നു അതിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് ചില നിയന്ത്രണ സംവിധാനം ആവിഷ്കരിക്കാൻ കഴിയും അത് സമ്മർദ്ദം മനസ്സിലാക്കുകയും അത് ഓണാക്കുകയും ചെയ്യും സോളിനോയിഡ് എങ്ങനെയാണ് ഉർജ്ജസ്വലമാകുന്നത് പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതേ ചോദ്യം വിപുലീകരണത്തിലും പിൻ വലിക്കുമ്പോഴും സിലിണ്ടറിന്റെ വേഗത തുല്യമാകുമെങ്കിൽ നിങ്ങൾക്ക് ഒരു പുനരുൽപ്പാദന സർക്യൂട്ട് ഉള്ളപ്പോൾ അഥവാ ഇല്ലെങ്കിൽ എന്താണ് വേഗത നിർണ്ണയിക്കുന്നത് നമ്മൾ വിശകലനം ചെയ്തു ഈ ഇത് മുമ്പത്തെ പ്രശ്നമാണ് പക്ഷേ ഇത് എങ്ങനെ തീരുമാനിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഡയറക്ഷണൽ വാൽവ് സി യുടെ ചിഹ്നത്തിന്റെ എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കുക അടിസ്ഥാനപരമായി വളരെ പ്രത്യേകമായ എന്തെങ്കിലും ഒഴികെ ഇത് പുനരുൽപ്പാദന റെസിപ്രോക്കേറ്റിംഗ് സർക്യൂട്ടിനെക്കുറിച്ചാണ് ഡയറക്ഷണൽ വാൽവ്വാൽവിന് ഒരു പ്രത്യേക തടസ്സം മാത്രമേയുള്ളൂ ഇതാണ് പ്രശ്നങ്ങളെ ക്കുറിച്ചും അതായത് സമ്മർദ്ദത്തെക്കുറിച്ചും പ്രവാഹത്തെ ക്കുറിച്ചും നമ്മൾചർച്ചചെയ്തത് അതിനാൽ അത് ഞങ്ങളെ 38 ാം പാഠത്തിന്റെ അവസാനത്തിലേക്ക് ആയിരിക്കുന്നു വളരെ നന്ദി